അതിനാൽ നമുക്ക് അടുത്തതായി 3 ആം സാധാരണ ഫോമിനെക്കുറിച്ച് പഠിക്കാം കൂടുതലായി 3 എൻഎഫ് എന്ന് അറിയപ്പെടുന്നു അതിനാൽ ഒരു ബന്ധം ഒന്നാമതായി അത് 2NF ൽ ആണെങ്കിൽ കൂടാതെ അത് പ്രൈം അല്ലാത്ത ആട്രിബ്യൂട്ട് ക്യാൻഡിഡേറ്റ് കീകളെ പ്രവർത്തനപരമായി ആശ്രയിക്കുന്നില്ല എങ്കിൽ 3 ആം സാധാരണ രൂപത്തിലാണ് എന്ന് പറയാം ഇത് നിർവ്വചിക്കാനുള്ള ഒരു മാർഗമാണിത് ഒരു ബദൽ നിർവചനം ഉണ്ട് അല്ലെങ്കിൽ ആ ബദൽ നിർവചനം ഞാൻ എഴുതട്ടെ ഓരോ പ്രവർത്തനപരമായ ആശ്രിതത്വത്തിനും ഒന്നുകിൽ അത് നിസ്സാരമാണ് അല്ലെങ്കിൽ X സൂപ്പർ കീ ആണ് അതിനർത്ഥം X ഓരോ Y യും പ്രവർത്തനപരമായി നിർണ്ണയിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ Y മൈനസ് X ലെ ഓരോ ആട്രിബ്യൂട്ടും പ്രൈം ആണ് ഇത് നിർവ്വചിക്കാൻ മറ്റൊരു മാർഗ്ഗമുണ്ട് അതിനാൽ അല്ലെങ്കിൽ എല്ലാ പ്രൈം ഇതര ആട്രിബ്യൂട്ടും എല്ലാ കീയെയും പൂർണ്ണമായും പ്രവർത്തനപരമായും ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ സംക്രമണേതര പ്രവർത്തനപരമായും എല്ലാ കീയെയും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നമുക്ക് മൂന്നാമത്തെ നിർവചനത്തിൽ നിന്ന് ആരംഭിക്കാം ഒരുപക്ഷേ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് അതിനാൽ നമ്മൾ എല്ലാ പ്രൈം അല്ലാത്ത ആട്രിബ്യൂട്ടും എടുക്കുന്നു അത് പൂർണ്ണമായും പ്രവർത്തനപരമായും സംക്രമണേതര പ്രവർത്തനപരമായും എല്ലാ കീയിലും ആശ്രയിച്ചിരിക്കണം അതിനാൽ ഇത് എങ്ങനെയാണ് ഉദാഹരണത്തിന് ആദ്യ നിർവചനത്തിന് തുല്യമായിരിക്കുക ഇത് ഇതിന് തുല്യമാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി 2NF ന്റെ നിർവചനമാണ് ഇത് ഈ നിർവചനത്തിന് തുല്യമാണ് അതിനാൽ എല്ലാ പ്രൈം അല്ലാത്ത ആട്രിബ്യൂട്ടും പ്രവർത്തനപരമായി സംക്രമണപരമായി ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും നിർവചനങ്ങൾ തുല്യമാണ് ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ നിർവചനം നോക്കാം മറ്റ് നിർവചനത്തിന് ഇത് എങ്ങനെയാണ് തുല്യമാവുന്നത് അതിനാൽ പ്രവർത്തനപരമായി ആശ്രയിക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അത് നിസ്സാരമാണെങ്കിൽ അതിനർത്ഥം Y എന്നത് X ന്റെ ഒരു ഉപവിഭാഗമാണ് അതായത് Y എന്നത് പ്രൈം അല്ലാത്തതാണ് മുതലായവയാണ് അല്ലെങ്കിൽ X എന്നത് ഒരു സൂപ്പർ കീയാണ് അതായത് X എന്നത് ഈ പ്രൈം ആട്രിബ്യൂട്ടിന്റെ ഭാഗമാണ് അതിനാൽ പ്രൈം അട്രിബ്യൂട്ടിന്റെ ഈ ഭാഗം അല്ലെങ്കിൽ Y മൈനസ് X ലെ ഓരോ ആട്രിബ്യൂട്ടും പ്രൈം ആണ് എന്നതാണ് അതായത് Y മൈനസ് X ലെ ഓരോ ആട്രിബ്യൂട്ടും പ്രവർത്തനപരമായി മറ്റെല്ലാം നിർണ്ണയിക്കുന്നു ഇവയെല്ലാം OR ഉം കൂടാതെ ഇത് AND ഉം കൂടാതെ ഇതും AND ഉം ആണെന്ന് ഓർമ്മിക്കുക അതിനാൽ ഇവ 3 ഉം ആണ് സാധാരണ രൂപത്തിന്റെ മൂന്ന് തുല്യ നിർവചനങ്ങൾ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം അതിനാൽ വീണ്ടും നമ്മൾ ഇനിപ്പറയുന്ന തരത്തിലുള്ള നിർവചനം പരിഗണിക്കുന്നതാണ് അതിനാൽ അത് ഐഡി പേര് പ്രോജക്റ്റ് ഐഡി പ്രോജക്റ്റ് നാമം എന്നിവയാണ് കൂടാതെ ഇവിടെ നമ്മൾ ഐഡിയാണ് കീ എന്നാണ് പറയുന്നത് അതിനാൽ പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ അടിസ്ഥാനപരമായി ID ആണ് തീർച്ചയായും അത് മറ്റെല്ലാം നിർണ്ണയിക്കുന്നു പക്ഷേ ഇത് പേരും പ്രോജക്റ്റ് ഐഡിയും കൂടി നിർണ്ണയിക്കുന്നു തുടർന്ന് പ്രോജക്റ്റ് ഐഡി പ്രധാനമായും പ്രോജക്റ്റിന്റെ പേര് നിർണ്ണയിക്കുന്നു ഇത് 3NF ൽ ഉണ്ടോ അതിനാൽ ഇനിപ്പറയുന്ന കാരണങ്ങളാൽ ഇത് 3NF ൽ ഉണ്ടാവുന്നതല്ല അതിനാൽ ഒരോന്നായി നമുക്ക് തിരിച്ചറിയാം ഐഡി ഒരു പ്രൈം അട്രിബ്യൂട്ട് ആണ് അതിനാൽ ഒന്നും ചെയ്യാനില്ല പേര് പേര് പൂർണ്ണമായി നിർണ്ണയിക്കുന്നത് ID ആണ് അതിനാൽ അത് മറ്റേതെങ്കിലും കാര്യത്തെ സംക്രമണപരമായി ആശ്രയിക്കുന്നില്ല അതിനാൽ പേരും നല്ലതാണ് അതുപോലെ തന്നെ പ്രോജക്റ്റ് ഐഡിയും എന്നിരുന്നാലും പ്രോജക്റ്റിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ട് പ്രോജക്റ്റിന്റെ പേര് ഇത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടാണ് കൂടാതെ ഇത് ഐഡിയിന്മേൽ സംക്രമണപരമായി നിർണ്ണയിക്കുന്നു അതിനാൽ പ്രോജക്റ്റ് പേര് നിർണ്ണയിക്കുന്നത് പ്രോജക്റ്റ് ഐഡിയാണ് അത് തിരികെ ഐഡിയാൽ നിർണ്ണയിക്കപ്പെടുന്നു അതിനാൽ പ്രോജക്റ്റിന്റെ പേര് ഇത് പരാജയപ്പെടുന്നു ഇത് 3NF ആണോ അല്ലയോ എന്ന ചോദ്യത്തിന് പൂർണ്ണമായും നിഷേധാത്മകമായി ഉത്തരം നൽകുന്നു ഇത് 3NF ൽ അല്ല ഇപ്പോൾ 3NF നോർമലൈസേഷന്റെ ഈ പ്രക്രിയ വീണ്ടും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരിക്കൽ നമ്മൾ അത് ചെയ്തുകഴിഞ്ഞാൽ ഇതാണ് 3NF നോർമലൈസേഷൻ ഒരിക്കൽ നമ്മൾ അത് ചെയ്തുകഴിഞ്ഞാൽ ഒഫെൻഡിംഗ് ആട്രിബ്യൂട്ട് പ്രധാനമായും ഐസൊലേറ്റ് ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കും ഇവിടെ ഒഫെൻഡിംഗ് ആട്രിബ്യൂട്ട് പ്രോജക്റ്റിന്റെ പേരാണ് അതിനാൽ നമ്മൾ അതിനെ ഐസൊലേറ്റ് ചെയ്യുവാൻ ശ്രമിക്കും അതിനാൽ നമുക്ക് ഈ റിലേഷൻ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കാം ആദ്യം ഐഡി പേര് പ്രൊജക്റ്റ് ഐഡി അതിനാൽ ഇതാണ് ആദ്യത്തെ റിലേഷൻ കൂടാതെ രണ്ടാമത്തെ റിലേഷൻ പ്രോജക്റ്റ് ഐഡിയും പ്രോജക്റ്റ് നാമവും ചേർന്നതാണ് അതിനാൽ ഇത് രണ്ടും 3 എൻഎഫിലാണ് അതിനാൽ ഇത് കീസ് ആണെന്നും ഇത് ലഭ്യമായ ഒരേയൊരു പ്രവർത്തനപരമായ ആശ്രിതത്വം ആണെന്നും ഞാൻ എഴുതട്ടെ അതിനാൽ ഇത് വീണ്ടും 3NF ൽ ആണെന്ന് ഒരാൾക്ക് നിർണ്ണയിക്കാൻ സാധിക്കും അതിനാൽ ഇത് 3NF നോർമലൈസേഷനിലാണ് അപ്പോൾ എന്താണ് വീണ്ടും 3NF ന്റെ പ്രശ്നം ഒരു ബന്ധം 3NF ആയി വിഭജിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനാൽ നമുക്ക് ഈ ഉദാഹരണം പരിഗണിക്കാം പ്രോജക്റ്റ് ഐഡിയിൽ പ്രോജക്റ്റിന്റെ പേര് നിർണ്ണയിക്കപ്പെടുന്നു അത് തിരികെ ഐഡി മൂലം നിർണ്ണയിക്കപ്പെടുന്നു അതിനാൽ ഒരിക്കൽകൂടി പ്രൊജക്റ്റ് ഐഡി മാറുകയോ ഐഡി മാറുകയോ ചെയ്താൽ പ്രൊജക്റ്റിന്റെ പേര് അനാവശ്യമായി ബാധിക്കപ്പെടും അതിനാൽ പ്രോജക്റ്റിന്റെ പേര് അനാവശ്യമായി ഈ ഐഡിയെ ബാധിക്കുകയാണെങ്കിൽ അത് അർത്ഥശൂന്യമാണ് അതിനാൽ പ്രോജക്റ്റിന്റെ പേര് മാറ്റുകയാണെങ്കിൽ അതിൻറെ ഇഫക്ട് ഐഡിയിൽ പ്രതിഫലിക്കും അതിനാൽ അതിൽ ജോലി ചെയ്യുന്ന ഓരോ പേരിനും അനുയോജ്യമായത് അതിനാൽ ആ പ്രോജക്റ്റ് നെയിമിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും ബാധിക്കപ്പെടും അതിനാൽ ആ ട്യൂപ്പുകളെല്ലാം ഇപ്പോൾ പരിഷ്ക്കരിക്കേണ്ടതുണ്ട് മറുവശത്ത് ഇത് ഈ 3NF നോർമലൈസ്ഡ് ഫോമുകളായി വിഭജിക്കപ്പെടുമ്പോൾ പ്രോജക്റ്റിന്റെ പേര് ഇതിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു അതിനാൽ ആദ്യ ടേബിൾ സ്പർശിച്ചിട്ടേയില്ല രണ്ടാമത്തെ പട്ടികയിൽ ചെയ്യേണ്ടത് പ്രോജക്റ്റിന്റെ പേര് മാറ്റുക എന്ന ഒരു മാറ്റം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ഇത് വളരെ മികച്ച രൂപകൽപ്പനയാണ് അതിനാൽ നമ്മൾ ഈ മൂന്ന് നോർമലൈസ്ഡ് ഫോമുകൾ മനസ്സിലാക്കിയിരിക്കുന്നു ഒരാൾക്ക് അനൌപചാരികമായി ഇനി പറയുന്ന രീതിയിൽ അവയെ സംഗ്രഹിക്കുകയും ചെയ്യാം അതിനാൽ 1NF എന്നത് എല്ലാ ആട്രിബ്യൂട്ടുകളും ആറ്റോമിക് ആണ് ശരിയല്ലേ അതിനാൽ അത്രയേ പറയാൻ കഴിയൂ 2NF ൽ എല്ലാ ആട്രിബ്യൂട്ടുകളും മുഴുവൻ കീകളെയും ആശ്രയിച്ചിരിക്കണം അതിനാലാണ് ഇതിനെ പൂർണ്ണമായും പ്രവർത്തനപരമായ ആശ്രിതത്വം എന്ന് വിളിക്കുന്നത് 3 NF ൽ എല്ലാ ആട്രിബ്യൂട്ടുകളും കീയല്ലാതെ മറ്റൊന്നിനെയും ആശ്രയിച്ചിരിക്കരുത് അതിനാൽ ഇത് തീർച്ചയായും 2NF ലാണ് കീയല്ലാതെ മറ്റൊന്നുമല്ല താനും അതിനാൽ അതിനർത്ഥം അവിടെ സംക്രമണ പരമായ യാതൊരു ആശ്രിതത്വവും ഇല്ല അത് ആ കീയെ മാത്രം ആശ്രയിച്ചിരിക്കണം ഒരു പരിവർത്തന ആശ്രിതത്വമില്ല എന്നാണ് അതിനാൽ ഇത് തീർച്ചയായും 1NF 2NF 3NF എന്നിവ എന്താണ് ചെയ്യുന്നതെന്ന് ഓർക്കുന്നതിനുള്ള ഒരു അനൌപചാരിക മാർഗ്ഗമാണ് അതിനാൽ ഒരു റിലേഷൻ 1NF ൽ ആണോ എന്ന് നമ്മൾ എങ്ങനെ നിർണ്ണയിക്കും അവിടെ മൾട്ടി വാല്യുഡ് ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ നെസ്റ്റഡ് റിലേഷൻസ് മുതലായവ ഉണ്ടാകരുത് എന്നാൽ 2NF ൽ ഇത് പൂർണ്ണമായും പ്രവർത്തനപരമായി ആശ്രയിച്ചിരിക്കണം അതുപോലെ 3NF ൽ അത് സംക്രമണപരമായി ആശ്രയിച്ചിരിക്കുകയും വേണം അതിനാൽ അങ്ങനെയാണ് അത് ചെയ്യാനുള്ള മാർഗ്ഗം എന്താണ് ഒരു പ്രതിവിധി അതിനാൽ ഒരു പ്രത്യേക റിലേഷൻ 1NF ൽ അല്ലെങ്കിൽ പിന്നെ ഒരാൾ എന്താണ് ചെയ്യേണ്ടത് എന്നാൽ അതാണോ ഒഫന്ഡഡ് മൾട്ടി വാല്യുഡ് ആട്രിബ്യൂട്ട് നെസ്റ്റഡ് ആട്രിബ്യൂട്ട് തുടങ്ങിയവ ആറ്റോമിക് ആട്രിബ്യൂട്ടായി വിഭജിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു റിലേഷൻ 2NF ൽ അല്ലെങ്കിൽ ഒരാൾ എന്തു ചെയ്യും കാന്ഡിഡേറ്റ് കീകളിൽ ഒന്നിനെ പൂർണ്ണമായും ആശ്രയിക്കാത്ത ഒഫന്ഡിംഗ് കീയെ ഐസൊലേറ്റ് ചെയ്യുന്നു 3 NF നും ഇതേ കാര്യം തന്നെ ചെയ്യുന്നു ഒരു കീയെ സംക്രമണപരമായി ആശ്രയിക്കുന്ന ഒഫന്ഡിംഗ് കീ അതിനാൽ ആ രണ്ട് പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ രണ്ട് ബന്ധങ്ങളായി വിഭജിക്കുന്നു അതിനാൽ നോർമൽ ഫോമുകൾക്കുള്ള രീതിയാണിത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നു ഉറപ്പുവരുത്താൻ നമുക്ക് ഒരു ചെറിയ ഉദാഹരണം ചെയ്യാം അതിനാൽ നമ്മൾ ചെയ്യുന്ന ഒരു ഉദാഹരണം ഇവിടെ ചേർക്കുന്നു അതിനാൽ ഇത് എൽ ആണ് എന്താണ് കാര്യം എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കും ഇവിടെ ഒരു ജില്ല ലോട്ട് നമ്പർ പ്രദേശം വില നിരക്ക് എന്നിവയുണ്ട് കൂടാതെ ഇത് ഐഡി ക്യാന്ഡിഡേറ്റ് കീയാണ് ശരി ഇതിലെ പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ഐഡി മറ്റെല്ലാം നിർണ്ണയിക്കുന്നു കാരണം ഐഡിയാണ് കീ അതിനാൽ ഐഡി ജില്ല ലോട്ട് പ്രദേശം വില നിരക്ക് മുതലായവ നിർണ്ണയിക്കുന്നു ഇപ്പോൾ അവിടെ മറ്റ് ചില പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങളും ഉണ്ട് അതിനാൽ ജില്ലയും ലോട്ടും അഥവാ ഒരാൾക്ക് ജില്ലയും ലോട്ടും ഒന്നിച്ച് അറിയാമെങ്കിൽ അത് ഏത് ഐഡിയിലാണ് ഏത് പ്രദേശത്താണ് അങ്ങനെ ഒരാൾ സംസാരിക്കുന്ന ഭൂമിയുടെ വിലയും നിരക്കുമെല്ലാം നിർണ്ണയിക്കാനാകും അതിനാൽ ഒരാൾക്ക് ജില്ല അറിയാമെങ്കിൽ അയാൾക്ക് അവിടെയുള്ള ഭൂമിയുടെ നിരക്ക് അറിയാൻ കഴിയും കൂടാതെ ഒരാൾക്ക് ഭൂമി സ്ഥിതിചെയ്യുന്ന പ്രദേശം അറിയാമെങ്കിൽ അയാൾക്ക് അതിന്റെ വില അറിയാൻ കഴിയും അറിയുക കാരണം ഈ ഏരിയ സമയം അദ്വിതീയ വിലയാണ് അതിനാൽ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇത് 1NF ൽ ആണോ ഉത്തരം അതെ എന്നാണ് കാരണം എല്ലാ ആട്രിബ്യൂട്ടുകളും ആറ്റോമിക് ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ അടുത്ത ചോദ്യം അത് 2NF ൽ ആണോ എന്നതാണ് ഇല്ല എന്നാണ് ഉത്തരം ഉത്തരം ഇല്ല എന്നായതിന്റെ കാരണം ഈ ആട്രിബ്യൂട്ട് പരിഗണിക്കുക നമുക്ക് ഇപ്പോൾ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിനാൽ നിരക്ക് ജില്ലയെയും ലോട്ടിനെയും ആശ്രയിച്ചിരിക്കുന്നു നിരക്കും ജില്ലയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അത് ജില്ലയെയും ലോട്ടിനെയും പൂർണ്ണമായും ആശ്രയിക്കുന്നില്ല അതിനാൽ ഇത് ഈ 2NF ലംഘിക്കുന്നു അതിനാൽ ഇത് 2NF ൽ ഇല്ല അപ്പോൾ വരുന്ന അടുത്ത ചോദ്യം ഇത് 3NF ൽ ആണോ എന്നതാണ് ഇപ്പോൾ തീർച്ചയായും ഒരു പരിശോധനയും കൂടാതെ ഒരാൾക്ക് ഇത് 3NF ൽ അല്ലെന്ന് പറയാൻ കഴിയും കാരണം എന്തെങ്കിലും ഒന്ന് 2NF ൽ അല്ലെങ്കിൽ അത് 3NF ൽ ഉണ്ടാകില്ല അതിനാൽ ഇത് ക്രമാനുഗതമായി പോയാൽ അതിനാൽ ഇപ്പോൾ ഈ 2NF നോർമലൈസേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഒരാൾ അതിനെ 2NF നോർമലൈസേഷനായി വിഭജിക്കാൻ ശ്രമിച്ചാൽ താഴെ പറയുന്ന റിലേഷൻസ് ഉണ്ടാക്കാൻ കഴിയും അതിനാൽ 2NF ടെസ്റ്റിംഗ് രീതിയിലെ എല്ലാ ഒഫന്ഡിംഗ് കീകളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അതിനാൽ ഒരാൾ ചെയ്യേണ്ടത് ഇനി പറയുന്നതാണ് ഈ L1 നിർമ്മിക്കുന്നത് ഇനി വരുന്ന ആട്രിബ്യൂട്ടുകളോടെയാണ് ഏരിയയും വിലയും ഇതാണ് ID L2 എന്നത് ലളിതമായി ജില്ല മുതൽ നിരക്ക് വരെ അതിനാൽ അതാണ് ഒരാൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് കൂടാതെ ഇവിടെ കീ ജില്ലയാണ് കൂടാതെ അതേ പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ പ്രവഹിക്കുന്നു അതിനാൽ ഇവ രണ്ടും ഇവിടെ പ്രവഹിക്കുന്നു ഇത് വീണ്ടും ഇവിടെ പ്രവഹിക്കുന്നു ഇത് അവിടെ പ്രവഹിക്കുന്നു ഇവയാണ് പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ ഇപ്പോൾ ഇത് 2NF അല്ലെങ്കിൽ 3NF തുടങ്ങിയവയിൽ ആണോ എന്നൊരാൾക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ L1 L1 2NF ൽ ആണോ എന്നിരുന്നാലും L2 നെക്കുറിച്ച് ആർഗ്യൂ ചെയ്യുന്നത് താരതമ്യേന എളുപ്പമാണ് L2 2 NF ൽ ആണോ അതെ L2 2 NF ൽ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്നാണ് ഇത് വളരെ ലളിതമാണ് ഇത് 2 NF ൽ ആണ് L1 2NF ൽ ആണോ അത് 2NF ലാണ് കാരണം ഇവയെല്ലാം കടന്നുപോകുന്നുണ്ടോ എന്ന് ഒരാൾക്ക് പരിശോധിക്കാനാകും ഇപ്പോൾ ചോദ്യം ഇതാണ് L2 3NF ൽ ആണോ അതെ L2 എന്നത് 3NF ൽ ആണ് കാരണം വളരെ ലളിതമായ ഒരു നിയമം എന്താണെന്നാൽ രണ്ട് ആട്രിബ്യൂട്ടുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അവയിൽ ഒന്ന് മാത്രമാണ് കീ എങ്കിൽ അത് മാത്രമേ കീ ആയി ഉള്ളൂ എങ്കിൽ അത് നോർമൽ ഫോമിലാണ് എന്ന് ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനാകും ഈ നിരക്ക് നിർണ്ണയിക്കുന്നത് ജില്ല മൂലം മാത്രമാണ് ആരംഭിക്കുന്നതിനായി മറ്റ് പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങളൊന്നുമില്ല L1 നെ കുറിച്ച് എന്തു പറയാം അത് 3NF ൽ ആണോ അല്ല അത് 3NF ൽ അല്ലാത്തതിന്റെ കാരണം ഈ ആട്രിബ്യൂട്ട് വില നിർണ്ണയിക്കപ്പെടുന്നത് ഇത് ഐഡിയെ ആശ്രയിച്ചിരിക്കുന്നു കാരണം ഐഡി എന്നത് തീർച്ചയായും കീയാണ് എന്നാൽ ഇത് പ്രദേശത്തെയും ആശ്രയിച്ചിരിക്കുന്നു അതിനർത്ഥം ഐഡി നിർണ്ണയിക്കുന്നു അതിനാൽ ഇത് ഒരു പ്രശ്നമാണ് വില പ്രദേശത്തെ ഐഡി നിർണ്ണയിക്കുന്നു അതിനാൽ ഇതാണ് ഓഫെൻഡിങ് കീസ് അതിനാൽ ഇത് 3NF ൽ അല്ല ഒരിക്കൽ കൂടി ഒരാൾ അതിനെ 3NF ആയി വിഭജിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരാൾ ചെയ്യേണ്ടത് ഇത് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുക എന്നതാണ് ആദ്യത്തേത് L11 ആണ് നമുക്ക് പറയാം ഇത് ലളിതമായി ഐഡി ജില്ല ലോട്ട് പ്രദേശം എന്നിങ്ങനെ മൂന്നാമത്തേത് L12 എന്നത് കേവലം വിസ്തീർണ്ണവും വിലയുമാണ് അതിനാൽ ഒഫന്ഡിംഗ് പ്രൈസ് ഈ കാര്യത്തിലേക്ക് വിഭജിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇത് പ്രദേശമാണ് കൂടാതെ ഇത് വീണ്ടും ഐഡിയായി തുടരുന്നു അതിനാൽ ഈ രണ്ട് പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ ഇവിടെ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഈ പ്രവർത്തനപരമായ ആശ്രിതത്വം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത് 3NF ൽ ആണോ എന്ന ടെസ്റ്റ് വരുന്നു തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ ഇത് എളുപ്പമാണ് ഈ L11 3 എൻഎഫിലാണോ അതെ ഒരാൾക്ക് പരിശോധിക്കാനാകുന്നത് പോലെ ഇത് 3NF ലാണ് കാരണം ഇതുവരെ ഒരു കീ മാത്രമേയുള്ളൂ കൂടാതെ ജില്ലയും ലോട്ടും ഒരുമിച്ച് മറ്റെല്ലാം നിർണ്ണയിക്കുന്നു പക്ഷേ ഇപ്പോൾ അത് കാര്യമാക്കേണ്ടതില്ല അതിനാൽ ഇതെല്ലാം ആണ് 3NF നെ കുറിച്ച് പറയാൻ ഉള്ളത് അടുത്ത ഫോമിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ആരംഭിക്കാം